ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള

അതിനാൽ അതിന്റെ അർത്ഥമെന്താണെന്ന് നമ്മൾ നോക്കുകയും മുഴുവൻ കാര്യങ്ങളും അവലോകനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അത് മനസിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും അത് എങ്ങനെ നിർമ്മിക്കുന്നു കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്താണ് വെബ് എന്ന് വിവരിച്ചിരിക്കുന്നു അതിനാൽ ഇത് വളരെ വൈവിധ്യമാർന്ന നിർവചനമാണ് URI തിരിച്ചറിഞ്ഞ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ ഘടകങ്ങൾ

അതിനാൽ ഈ വ്യത്യസ്ത തരം നിർവചനങ്ങളിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും ഇത് ഒരു XML അടിസ്ഥാനമാക്കിയുള്ള പ്രതിഭാസമാണ് XML നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ഡാറ്റാ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നതിനും ഇത് സഹായിക്കുന്നു അതിനാൽ കാര്യങ്ങൾ നോക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണിത് കൂടുതൽ കർശനമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ലയന്റ് സെർവർ പരിചിതമായവർക്ക് ഇത് കൂടുതൽ അയവുള്ളതും പരസ്പരം വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയുന്നതുമാണ് അതിനാൽ ഈ വെബ് പരിണമിച്ചു ഇത് പ്രധാന പങ്കുവഹിക്കുന്നു ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ആ ഡാറ്റ സേവനങ്ങളുടെ പരിണാമത്തിനോ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗിനെ വ്യത്യസ്ത വെണ്ടർമാരിൽ നിന്നും പ്ലാറ്റ്ഫോമിൽ പോലുള്ളവ നമ്മൾ വികസിപ്പിക്കേണ്ടതുണ്ട് ഈ മേഖലയിലെ മറ്റൊരു പ്രധാന വികസനം EDI അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് ഇരു പാർട്ടികളും അംഗീകരിക്കുന്നു ഓർഗനൈസേഷൻ

ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വ്യക്തവും വേഗതയേറിയതുമായ വ്യാപാര ചക്രം ഇപ്പോൾ ഇവയെല്ലാം വെബ് സമീപനത്തിൽ വ്യത്യസ്ത ഘടകങ്ങൾ വികസിപ്പിക്കാൻ അവരെ സഹായിക്കുന്നു അതിനാൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ചെയ്യുന്നു എനിക്ക് ആക്സസ് അല്ലെങ്കിൽ മറ്റ് സേവനങ്ങൾ എന്നിവയിലൂടെ പോകുന്നു ഒരു ജോലി നിർവ്വഹിക്കുന്നതിന് ശരിയായി ക്രമീകരിച്ച ഒന്നിലധികം സേവനങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നു എന്റെ ബജറ്റിനെയും വാങ്ങുന്നുണ്ടോയെന്ന് സേവന ദാതാവിന് ഒരു സൂചനയും ഇല്ല അതിനാൽ ഒരു പ്രത്യേക രൂപത്തിൽ ഒരു അഭ്യർത്ഥന ലഭിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കുകയും ഒരു പ്രത്യേക രൂപത്തിൽ മറുപടി നൽകുകയും ചെയ്യും അതിനർത്ഥം ഇത് ഒരു തരം XML തരത്തിലുള്ള സന്ദേശമോ കൈമാറ്റമോ ആണ് വ്യത്യസ്ത തരം സോഫ്റ്റ്വെയർ സൃഷ്ടിക്കാൻ ഇത് നമ്മളെ അനുവദിക്കുന്നു അതിനാൽ എനിക്ക് കാര്യങ്ങൾ മിക്സ് ഉപയോഗിക്കുന്നു ഇത് ഡാറ്റാ അനുവദിക്കുന്നു

www അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൽ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഡാറ്റ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചും XML കൂടുതൽ പ്രവർത്തിക്കുന്നത് XML പ്ലസ് പരിവർത്തന തരം കാര്യങ്ങളാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്

അതിനാൽബ്രൌസറിലൂടെയോ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വെബ് ഉള്ള പരസ്പരപ്രവർത്തനം

ഫയർവാൾ ട്രാവെർസൽ 80 ലെ http അനുവദനീയമാണ് വെബ് അടിസ്ഥാന മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുക അതിനാൽ ഇത് പ്രധാനമാണ് ഇത് ക്രമാതീതമായി നടപ്പിലാക്കാൻ കഴിയും എല്ലാം ആദ്യ ദിവസം തന്നെ ചെയ്യേണ്ടതില്ല ഇവയെല്ലാം ഒറ്റയടിക്ക് എന്നതിന് പകരം ക്രമാതീതമായി ചെയ്യാൻ കഴിയുന്ന മറ്റ് വിന്യാസങ്ങളുണ്ട് ഇത് ചെലവ് കുറയ്ക്കുകയും സാങ്കേതികവിദ്യകളിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റത്തിൽ നിന്ന് സംഘടനാ തടസ്സത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു ഇവ വ്യത്യസ്ത വശങ്ങളാണ് മറ്റൊരു പ്രധാന കാര്യം ബാഹ്യ ലോകത്തിനായി നിങ്ങൾക്ക് ശരിയായ വെബ് ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നതാണ് അതിനാൽ നമ്മൾ വീണ്ടും സംഗ്രഹിക്കാൻ ശ്രമിച്ചാൽ ഓപ്പൺ സ്റ്റാൻഡേർഡ് സേവന വിവരണ ഭാഷ എന്താണെന്ന് വീണ്ടും കാണാം എന്റെ സേവനം എവിടെയാണ് സമാരംഭിക്കുന്നത് അത് എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു നമുക്ക് ഒരു WSDL ൽ ചെയ്യാൻ കഴിയും അടിസ്ഥാനപരമായി എനിക്ക് UDDI ഉപയോഗിച്ച് പ്രസിദ്ധീകരിക്കാനും കണ്ടെത്താനും കഴിയും അതിനാൽ എന്റെ വെബ് സേവന വിവരണ കണ്ടെത്തലും സംയോജനവും UDDI സുഗമമാക്കുന്നു നടപ്പിലാക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം നമുക്ക് XML ആണ് അടിസ്ഥാനം നമുക്ക് മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് SOAP WSDL UDDI അതിനാൽ എല്ലാം W3C കംപ്ലയിന്റായതും യഥാർത്ഥ XML അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും ആണ് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കാം അതിനാൽ ഒരു ഉദാഹരണം വെബ് മറ്റ് ചില തരം സേവനങ്ങൾ നൽകാൻ കഴിയും

ഇപ്പോൾ ഈ മുഴുവൻ കാര്യങ്ങളും നോക്കുമ്പോൾ ഇത് മൊത്തത്തിലുള്ള മറ്റൊരു ആർക്കിടെക്ചറിലേക്ക് പരസ്പരം സംസാരിക്കാൻ അനുവദിക്കുന്ന എന്തെങ്കിലും ഉണ്ട് ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ വളരെ ലഭ്യമായ ഒരു ചിത്രമാണിത് ഇത് നിങ്ങൾക്ക് മറ്റൊരു പുസ്തകത്തിൽ കാണാൻ കഴിയും സേവന അഭ്യർത്ഥകൻ സേവന ദാതാവിൽ നിന്ന് സേവനങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താവാണെങ്കിൽ സേവനങ്ങൾ എവിടെയാണെന്ന് സേവന അഭ്യർത്ഥകൻ എങ്ങനെ കണ്ടെത്തും അതിനാൽ ഏത് തരം സേവനങ്ങളാണുള്ളതെന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു രജിസ്ട്രി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരയുകയാണെന്ന് കരുതുക ഇത് ഒരു ഡയറക്ടറി സേവനത്തിൽ നിന്ന് ആ QSDL UDDI എന്നിവ ഉപയോഗിച്ച് ആവശ്യമായ സേവനം കണ്ടെത്തുന്നു തുടർന്ന് അടിസ്ഥാനപരമായി അത് പോകുന്ന സേവന ദാതാവിനോട് ബന്ധിപ്പിക്കുക അതിന് ഒന്നിൽ കൂടുതൽ സേവന ദാതാക്കളെ കണ്ടെത്താനാകും സേവന ദാതാവ് ഒരു പുതിയ സേവനം ആരംഭിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സേവനം അപ്ഡേറ്റു പ്രസിദ്ധീകരിക്കും അതിനാൽ ഭാവിയിൽ വാങ്ങുന്നയാൾക്കോ ഭാവിയിൽ ഉപഭോക്താവിനോ അതിനെക്കുറിച്ച് അറിയാൻ കഴിയും ഇത്തരത്തിലുള്ള സേവനങ്ങൾ എവിടെയാണെന്ന് ഉപഭോക്തൃ അഭ്യർത്ഥകന് കണ്ടെത്താൻ കഴിയും അതിനാൽ ഇത് വ്യത്യസ്ത ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ത്രികോണമാണെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കി എന്തെങ്കിലും വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സർവീസ് ട്രിവൺ ആണെന്ന് പറയുന്നു വെബ്

വെബ് മൂന്ന് പ്രധാന പ്രവർത്തനങ്ങൾ ഒന്ന് സേവന ദാതാവിന്റെ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുക ഉപഭോക്താവിനെ കണ്ടെത്തുക കാര്യങ്ങൾ കണ്ടെത്തുകയും അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഒടുവിൽ സേവന ഉപഭോക്താവിനെ ദാതാവുമായി ബന്ധിപ്പിക്കുന്നു XML എക്സ്റ്റൻസിബിൾ മാർക്ക്അപ്പ് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള ഒരു സംവിധാനം ആണ് ഇത് സേവനങ്ങൾ കണ്ടെത്തുന്നതിനായി ക്ലയൻറ് ദാതാവിന് SOAP സന്ദേശ അഭ്യർത്ഥന അയയ്ക്കുന്നു കൂടാതെ സേവനം ഒരു SOAP സന്ദേശമായി പ്രതികരണം നൽകുന്നു അതാണ് കാര്യങ്ങൾ ബന്ധിപ്പിക്കുന്നത് ഇവ വ്യത്യസ്ത ഘടകങ്ങളാണ് ഇത് ഇന്റർനെറ്റ്വർക്കിംഗിലോ തരവുമാണ് മറ്റ് തരത്തിലുള്ള വശങ്ങൾക്കായി മറ്റ് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് സേവനത്തിന്റെ ഗുണനിലവാരം അവർ ഏതുതരം സേവനമാണ് നൽകുന്നത് QS മാനേജുമെന്റ് പ്രശ്നങ്ങൾ എങ്ങനെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യാം തുടർന്ന് സുരക്ഷാ സവിശേഷതകൾ ഒരു സുരക്ഷാ ലംഘനമുണ്ടോ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം സുരക്ഷാ നയങ്ങൾ എന്തായിരിക്കും ആരെയാണ് വിശ്വസിക്കേണ്ടത് ആ ഘടകങ്ങളെല്ലാം അവിടെ ഉണ്ടാകും സാമാന്യവൽക്കരിച്ച മാർക്ക്അപ്പ് നിർവചിച്ചിരിക്കുന്നോ എന്ന് അതിനാൽ XML ന്റെ കാര്യത്തിൽ ടാഗുകൾ മുൻനിശ്ചയിച്ചിട്ടില്ല വെബ് നിർവചിക്കാൻ കഴിയും ഇത് ഒരു html കാര്യമാണ് അടിസ്ഥാനപരമായി ഒരു പ്രത്യേക വ്യക്തിയുടെ വിലാസം അല്ലെങ്കിൽ വ്യക്തിഗത ഇമെയിൽ എന്ന വ്യക്തിയുടെ സമ്പർക്കം എങ്ങനെ നിർവചിക്കപ്പെടുന്നുവെന്ന് കാണിക്കുന്നു ഏതെങ്കിലും സ്റ്റാൻഡേർഡ് മുതലായവ ഉണ്ട് ഇതൊരു XML തരത്തിലുള്ള കാര്യമാണ് ഇത് അവതരണമല്ല അതിനാൽ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് മൂന്ന് പ്രധാന ഘടകങ്ങൾ അതിലൊന്നാണ് SOAP ഇത് കൂടുതൽ സന്ദേശമയയ്ക്കൽ പ്രോട്ടോക്കോൾ സേവനങ്ങൾ കൈമാറുന്നു ഇവിടെ http കാരിയർ പ്രോട്ടോക്കോൾ എങ്ങനെയാണ് അവിടെയുള്ളത് ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ എന്നിവയുണ്ട് കൂടാതെ പിശകുകളും വിശദീകരണ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷേ എല്ലാം XML അടിസ്ഥാനമാണ് സന്ദേശ ഘടന അത് ഒരു SOAP എൻവലപ്പിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല SOAP അഭ്യർത്ഥന ഇങ്ങനെയാണ് ഇത് നമ്മുടെ http കാര്യങ്ങളിലെ ഒരു പോസ്റ്റ് പേരും നേടുക ചിലപ്പോൾ IBM ആയിരിക്കാം വീണ്ടും നിങ്ങൾ ഈ http പ്രതികരണം കാണുകയാണെങ്കിൽ അത് ഒരു മൂല്യത്തോടെ പ്രതികരിക്കുന്നു ഇത് ഡാറ്റ ഒരു HTML തരം കാര്യം ഉണ്ടായിരിക്കാൻ ഇത് പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നില്ല എന്തുകൊണ്ടാണ് SOAP ആപ്ലിക്കേഷനുകൾക്ക് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും തുടങ്ങിയവ ചെയ്യുന്നു എക്സ്റ്റൻസിബിൾ പരസ്പരം സംസാരിക്കുന്നതിന് ഇത് തികച്ചും അനുയോജ്യമാണ് വ്യത്യസ്ത ഉപയോഗ മോഡലുകൾ ഉള്ളടക്കവും അനുവദിക്കും മറ്റ് സുരക്ഷാ വശങ്ങളുണ്ട് അതിലേക്ക് പോകുന്നില്ല സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവയെക്കുറിച്ച് സംസാരിക്കും മറ്റൊന്ന് WSDL വെബ് ആണ് ഇത് ഭാഷയെ വിവരിക്കാൻ അനുവദിക്കുന്നു അതിനാൽ ഇതിന് വ്യത്യസ്ത ഘടനയുണ്ട് പോർട്ട് പ്രക്രിയ എങ്ങനെ നടക്കും ഇത് ഒരു സാമ്പിൾ WSDL സന്ദേശമാണ് ഇത് ഒരു ബൈൻഡിംഗ് മറ്റും ബന്ധപ്പെട്ടിരിക്കുന്നു അവസാനമായി നമുക്ക് UDDI സാർവത്രിക വിവരണ കണ്ടെത്തലും സംയോജനവും ഉണ്ട് ഇത് ഒരു രജിസ്ട്രി വിവരങ്ങളെല്ലാം അവിടെയുണ്ട് ഈ ഉപഭോക്താവോ അഭ്യർത്ഥകനോ ഇവിടെ നിന്ന് ആ പ്രത്യേക അടിത്തറകൾക്കായി തിരയുന്നു കൂടാതെ ആ പ്രത്യേക ദാതാവിനോട് എങ്ങനെ ബന്ധപ്പെടാം തുടങ്ങിയവ ഇവിടെ ഉണ്ടാവും അതിനാൽ മുമ്പത്തെ രണ്ട് സ്ലൈഡുകൾ വ്യത്യസ്തമാണ് അതിനാൽ സേവന ദാതാവ് രജിസ്ട്രികൾ പ്രസിദ്ധീകരിക്കുന്നു അഭ്യർത്ഥകൻ അത് കണ്ടെത്തി കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നു അതിനാൽ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ഇത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഇത് അടിസ്ഥാനപരമായി മറ്റൊരു കാര്യം പ്രസിദ്ധീകരിക്കുന്നു ഉപയോക്താവ് ഇതിനായി തിരയുകയും ദാതാവുമായി ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു നിരവധി നേട്ടങ്ങളുണ്ട് ഏതെങ്കിലും രജിസ്ട്രി കണ്ടെത്തുന്നത് സാധ്യമാക്കുന്നു ഇഷ്ടമുള്ള ബിസിനസ്സുമായി എങ്ങനെ പ്രാപ്തമാക്കാം എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകില്ല ഈ സുരക്ഷ പ്രവർത്തിക്കും അതിനാൽ സുരക്ഷ SOAP യുടെ മറ്റൊരു പ്രധാന വശമായി മാറുന്നു വെബ് QoS എന്നിവപോലുള്ള മറ്റ് കാര്യങ്ങളും പ്രവർത്തിക്കുന്നു അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ഈ വെബ് സേവനങ്ങൾ ഉള്ളപ്പോഴെല്ലാം ഇത് ബാധകമാണ് അതിനാൽ ഞാൻ അടിസ്ഥാനപരമായി നോക്കേണ്ടത് ആരാണ് സേവന ദാതാവും ഉപഭോക്താവും സേവനം എവിടെയാണ് സമാരംഭിച്ചതെന്നും മറ്റുമുള്ള കാര്യങ്ങളാണ് അതിനാൽ ഈ ക്ലൌഡ് മറ്റ് വശങ്ങളുമായി ഭാവിയിലെ പ്രഭാഷണത്തിൽ നമുക്ക് തുടരാം